ബയോ റിയാക്ടറുകളെക്കുറിച്ചുള്ള എൻപിടിഇഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സായ പ്രഭാഷണം 18 ലേക്ക് സ്വാഗതം ഈ കോഴ്സിന്റെ അവസാന മൊഡ്യൂളായ മൊഡ്യൂൾ 5 നമ്മൾ ഇന്ന് ആരംഭിക്കും ഈ മൊഡ്യൂളിന്റെ ശീർഷകം ഒരു ബയോ റിയാക്ടറിന്റെ കോശ കാഴ്ചയാണ് ബയോറിയാക്ടറിൽ ഉൽപന്നം ഉൽപാദിപ്പിക്കുന്ന യഥാർത്ഥ വ്യവസായ ശാലകളാണ് കോശങ്ങളെന്ന് നമുക്ക് അറിയാം അവ സ്വയം ഉൽപ്പന്നങ്ങളാകാം മൊഡ്യൂൾ 2 നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അതിൻറെ ശീർഷകം ഒരു ബയോ റിയാക്ടറിന്റെ രണ്ട് പ്രധാന ഫലങ്ങളാണ് കോശങ്ങൾ സ്വയം അല്ലെങ്കിൽ ബയോമാസ് എന്നറിയപ്പെടുന്നവ അല്ലെങ്കിൽ കോശങ്ങൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ എൻസൈം പ്രതിപ്രവർത്തനങ്ങൾ അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ബയോറിയാക്ടറിലെ കോശങ്ങൾക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ബയോ റിയാക്ടറുകൾ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നതിന് അവയിൽ ചിലത് എങ്ങനെ ഉപയോഗിക്കാമെന്നും പരിശോധിക്കാൻ പോകുന്നു വീണ്ടും ആവർത്തിക്കാം കോശങ്ങൾ ഒരു ബയോറിയാക്ടറിലെ യഥാർത്ഥ വ്യവസായ ശാലകളാണ് മാത്രമല്ല കോശ തലത്തിൽ കാര്യമായ പുരോഗതി സംഭവിക്കേണ്ടതുണ്ട് കാരണം അത് കൂടുതൽ അടിസ്ഥാന തലമാണ് അടിസ്ഥാന തലത്തിൽ നിന്ന് എന്തും മനസിലാക്കുന്നത് ഉറപ്പുള്ള മെച്ചപ്പെടുത്തലിന് എപ്പോഴും വളരെ നല്ലതാണ് അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബയോറിയാക്ടറിലെ കോശങ്ങളെ കുറിച്ചുള്ള ചില സമീപനങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് വാസ്തവത്തിൽ ഇതിന് ഒരു ആശയമുണ്ട് നമ്മൾ ആദ്യം കോശത്തിനെ ഒരു കറുത്ത പെട്ടിയായി കാണും നിങ്ങൾക്കറിയാമോ ഈ സ്റ്റൈക്കിയോമെട്രിക് വശങ്ങൾ കറുത്ത പെട്ടി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾക്ക് എന്തുചെയ്യാൻ പറ്റും കോശത്തിന്റെ "സ്റ്റാറ്റസ്" സൂചകങ്ങളിലൂടെ നമ്മൾ ആ കറുത്ത പെട്ടിയിലേക്ക് ഒരു ജാലകം തുറക്കും സ്റ്റാറ്റസ് ഒരുപാട് തരത്തിൽ ഉണ്ട് അതിന്റെ ചില വശങ്ങൾ നമ്മൾ പരിശോധിക്കും പിന്നെ നമ്മൾ ജാലകത്തിലൂടെ അകത്തേക്ക് നോക്കുന്നു ചിലപ്പോൾ മറ്റ് ദിശകളിൽ നിന്നും ചിലപ്പോൾ നമ്മൾ ചില വാതിലുകൾ തുറന്ന് അകത്തേക്ക് നോക്കും ഉപാപചയ ഫ്ലക്സ് വിശകലനം അതിന്റെ ഉദാഹരണമാണ് തുടർന്ന് ഡിഎൻഎ പരിഷ്ക്കരണം പുന സംയോജിത ഡിഎൻഎ സാങ്കേതികവിദ്യകളുടെ ഉപയോഗം മുതലായവ പോലുള്ള നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിക്കും നമ്മൾ അവയിൽ സ്പർശിക്കുകയേയുള്ളൂ കാരണം ഡിഎൻഎ സാങ്കേതികവിദ്യ ഒരു വലിയ വിഭാഗമാണ് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുള്ള അതിന്റെ പ്രസക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ബയോറിയാക്ടറിൽ നിന്നുള്ള ഫലങ്ങളെക്കുറിച്ചോ ഞാൻ സംസാരിക്കും അതാണ് ഈ പ്രത്യേക മൊഡ്യൂളിന്റെ പ്രമേയം ആദ്യം ഈ പ്രഭാഷണത്തിൽ നാം ബയോ റിയാക്ഷൻ സ്റ്റോകിയോമെട്രി നോക്കും പിന്നെ നമുക്ക് ഒരു പ്രശ്നവും തുടർന്ന് അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ പ്രശ്നം പരിഹരിക്കും പിന്നീട് മുന്നോട്ട് പോകും ബയോറിയാക്ഷൻ സ്റ്റോകിയോമെട്രി എന്ന പദം രസതന്ത്രത്തിൽ വളരെയധികം ഉപയോഗിക്കുന്നു എഞ്ചിനീയറിംഗിലും ഇത് ഉപയോഗിക്കുന്നു എഞ്ചിനീയറിംഗിൽ ഇത് യഥാർത്ഥത്തിൽ മെറ്റീരിയൽ എനർജി ബാലൻസുകൾ അല്ലെങ്കിൽ ബഹുജന സംരക്ഷണ തത്വത്തെയും ഊർജ്ജ സംരക്ഷണ തത്വത്തെയും അടിസ്ഥാനമാക്കിയുള്ളവയെ സൂചിപ്പിക്കുന്നു എഞ്ചിനീയറിംഗിലെ സ്റ്റോകിയോമെട്രി എന്ന് വിളിക്കുന്നത് അതാണ് സ്റ്റോകിയോമെട്രി യെക്കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട് അതുപോലെ ബയോറിയാക്ഷൻ സ്റ്റോകിയോമെട്രി എന്നത് ബയോസിസ്റ്റംസ് ഉൾപ്പെടുന്ന മെറ്റീരിയൽ ഊർജ്ജ ബാലൻസ് കണക്കുകൂട്ടലുകളെയാണ് സൂചിപ്പിക്കുന്നത് പൂർണ്ണമായ ഡാറ്റ ലഭ്യമല്ലാത്തപ്പോൾ വൈജ്ഞ്ജാനികമായ ഊഹങ്ങൾ നമ്മളെ ബയോറിയാക്ഷൻ സ്റ്റൈക്കിയോമെട്രി സഹായിക്കുന്നു അങ്ങനെയാണ് നമ്മൾ അത് കാണാൻ പോകുന്നത് നമ്മൾ കോശ തലത്തിലേക്ക് നോക്കാൻ തുടങ്ങി നമ്മുടെ മുമ്പത്തെ ചർച്ചകളിൽ ഇതിലേക്ക് നയിച്ചിരുന്നു എന്നാൽ ഇവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കോശത്തിലേക്ക് നോക്കുന്നത് ആദ്യത്തെ സമീപനം കോശം ഒരു കറുത്ത പെട്ടിയാണെന്നും ആ പെട്ടി നിരീക്ഷിച്ചതിൽ നിന്ന് നമുക്ക് ശേഖരിക്കാവുന്ന ചില കാര്യങ്ങൾ ഉണ്ട് ചില കാര്യങ്ങൾ പെട്ടിക്കകത്ത് നടക്കുന്നു സ്റ്റോകിയോമെട്രിയുടെ ഉപയോഗത്തിന് വളരെ ഉപകാരപ്രദമായ ഒരു ആശയമാണ് ഡിഗ്രി ഓഫ് റിഡക്റ്റൻസ് എന്ന് വിളിക്കുന്നത് ബയോറിയാക്ഷൻ സ്റ്റോകിയോമെട്രി കണക്കുകൂട്ടലുകൾ എളുപ്പമാക്കുന്ന ഒരു സൂത്രവാക്യമാണിത് ഇവിടെ നൽകിയിരിക്കുന്നതുപോലെ കാപ്പിറ്റൽ ഗ്രീക്ക് ചിഹ്നമായ ഗാമയെ ഇത് സൂചിപ്പിക്കുന്നു നിങ്ങൾ ഇവിടെ കാണുന്ന ഇതാണ് റിഡക്റ്റൻസിന്റെ അളവ് ഓരോ പദാർത്ഥത്തിനും റിഡക്റ്റൻസ് നൽകിയിട്ടുണ്ട് ഒരു പദാർത്ഥത്തിന് ദാനം ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് മനസ്സിലാക്കാം അതിനാൽ ഇത് അടിസ്ഥാനപരവുമായ ആശയമാണ് ഇത് ഇലക്ട്രോൺ തലത്തിൽ പ്രവർത്തിക്കുന്നു ഇലക്ട്രോണുകൾ സംരക്ഷിക്കപ്പെടുന്നു അത്കൊണ്ട് ഇത് പ്രവർത്തിക്കും കാര്യങ്ങൾ ചെയ്യാനും കഴിയും അതിനാൽ ഒരു വസ്തുവിനു ദാനം ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമായി ഇത് മനസ്സിലാക്കുന്നു ഇത് ആദ്യത്തെ ഏകദേശ കണക്ക് മാത്രമാണ് ഇത് എല്ലായ്പ്പോഴും സാധുവല്ല അതിനാൽ ഒരു നിശ്ചിത തന്മാത്രയ്ക്ക് നൽകിയിട്ടുള്ള ഒരു സംഖ്യയേക്കാൾ കൂടുതലാണ് ഇത് നമ്മൾ ഇത് കാണുന്നത് ഓക്സിജന് ദാനം ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 4 O2 4 O മൈനസ് 2 കാർബൺ 4 നൈട്രജൻ 3 എന്നിവയാണ് ഒരു പദാർത്ഥത്തിന് ദാനം ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഇത് ഫോസ്ഫറസിന്റെ മൂല്യം 5 ആണ് സൾഫർ 6 ആണ് CO2 0 ഉം H2O 0 ഉം ആണ് നമുക്ക് റിഡക്റ്റൻസിന്റെ അളവ് ചേർത്ത് ഈ മൂലകങ്ങൾ ചേർന്ന ഒരു സംയുക്തത്തിന്റെ റിഡക്റ്റൻസിന്റെ അളവിൽ എത്തിച്ചേരാം അതിനാൽ അടിസ്ഥാന കാര്യങ്ങൾ O C N P S എന്നിവയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഓക്സിജൻ നൈട്രജൻ CO 2 H 2 O ക്ഷമിക്കണം ഓക്സിജൻ CO 2 H 2 O തുടങ്ങിയവ ലഭിക്കും അതിനാൽ നെഗറ്റീവ് മൂല്യം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് പദാർത്ഥത്തിന് ദാനം ചെയ്യുന്നതിനുപകരം ഇലക്ട്രോണുകളെ സ്വീകരിക്കാൻ കഴിയും എന്നാണ് ഒരു പദാർത്ഥത്തിന് ദാനം ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമായാണ് ഇത് മനസ്സിലാക്കുന്നത് അതാണ് റിഡക്റ്റൻസിന്റെ അളവ് ഈ ആശയം ഉപയോഗിച്ച് നമുക്ക് എന്തുചെയ്യാമെന്ന് നോക്കാം അതിനുമുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും പദാർത്ഥത്തിന്റെ റിഡക്റ്റൻസിന്റെ അളവ് ബീജഗണിതത്തിൽ റിഡക്റ്റൻസിന്റെ അളവ് അതിന്റെ ഘടകങ്ങളുടെ റിഡക്റ്റൻസിന്റെ ഡിഗ്രി അതിന്റെ ഘടകങ്ങൾ എന്നിവ വഴി ലഭിക്കും ഉദാഹരണത്തിന് ഒരു സബ്സ്ട്രേട് പോലുള്ള സങ്കീർണ്ണമായ തന്മാത്ര നമ്മൾ നേരത്തെ O2 H2O CO2 നോക്കിയതു പോലെ ഇവിടെ ഒരു കാർബോഹൈഡ്രേറ്റ് പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതായത് സബ്സ്ട്രെടിന്റെ ഡിഗ്രീ ഓഫ് റെഡക്റ്റൻസ് എന്നത് എല്ലാ മൂലകങ്ങളുടെ ഘടകങ്ങളും ഒന്നിച്ചു കൂട്ടിയതാണ് അത്കൊണ്ട് ഡിഗ്രീ ഓഫ് റെഡക്റ്റൻസ് Substrate 4 x 1 x Cells 4 a Γcells കോശങ്ങൾക്ക് ഈ കോശങ്ങൾ ഏകദേശം 4 2 ആണെന്ന് കണ്ടെത്തി ഈ രീതി കണക്കാക്കിയതായി നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നമ്മൾ കാണാൻ പോകുന്ന പാരാമീറ്ററുകൾ പ്രധാനമായും വിവിധതരം പദാർത്ഥങ്ങൾക്കായി മുഖ്യ പാരാമീറ്ററുകളായി കണക്കാക്കപ്പെടുന്നു ഇവ വളരെ ഇടുങ്ങിയ പരിധിക്കുള്ളിലാണ് സംഭവിച്ചത് അതിനാൽ നിങ്ങൾ ആ ശ്രേണിയുടെ ശരാശരി മൂല്യം ഒരു പ്രതിനിധി മൂല്യമായി കണക്കാക്കിയാൽ നമ്മൾക്ക് ആദ്യ ലെവൽ കണക്കുകൂട്ടലുകൾ വളരെ എളുപ്പത്തിൽ ചെയ്യാനും എന്താണ് സംഭവിക്കുന്നതെന്നതിനെക്കുറിച്ചുള്ള സ്ഥിതിവിവരക്കണക്കുകൾ നേടാനും കഴിയും ബയോറിയാക്ടർ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് ഇതിലൂടെ സാധ്യമാകും അതിനാൽ യഥാർത്ഥ ഡാറ്റയുടെ അഭാവത്തിൽ Γcells 4 2 ആണ് ഇത് ഒരു ആദ്യ കണക്കാണ് ഇതിന്റെ കുറച്ച് ഉപയോഗങ്ങൾ നോക്കാം ഞാൻ ഒരു പ്രശ്നം നൽകാം ഒരു സാധാരണ കോശവും ഉൽപ്പന്ന രൂപീകരണവും നമുക്ക് പരിഗണിക്കാം കോശത്തെയും ഉൽപ്പന്ന രൂപീകരണത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു സ്റ്റോകിയോമെട്രിക് സമവാക്യമാണിത് CHmOl aNH3 bO2 → yx CHpOnNq yp CHrOsNt cH2O dCO2 അതിനാൽ സ്റ്റോകിയോമെട്രിക് സമവാക്യം കോശത്തെയും ഉൽപ്പന്ന രൂപീകരണത്തെയും പൊതു രീതിയിൽ പ്രതിനിധീകരിക്കുന്നു ഈ പ്രഭാഷണത്തിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള വിശകലനത്തിനുള്ള സമവാക്യമായി ഇതിനെ പറയാം തത്വപ്രകാരം ഇലക്ട്രോണുകളുടെ എണ്ണം ആവശ്യമാണ് Γs a 33 b yx Γx yp Γp c d 0 S x p എന്നീ സബ്സ്ക്രിപ്റ്റുകൾ യഥാക്രമം സബ്സ്ട്രേറ്റ് കോശങ്ങൾ ഉൽപ്പന്നം എന്നിവയെ സൂചിപ്പിക്കുന്നു മുകളിലുള്ള സമവാക്യം പുനക്രമീകരിക്കുന്നു b 14 Γs yx Γx yp Γp 4b Γs yx Γx Γsyp Γp Γs 1 ε η ζ 1 നമുക്കറിയാം ഇലക്ട്രോണുകൾ സംരക്ഷിക്കപ്പെടുന്നു ശരിയല്ലേ അതിനാൽ ഈ തത്വമനുസരിച്ച് നിങ്ങൾ ഈ വശത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം കണക്കാക്കുകയാണെങ്കിൽ അത് ഈ വശത്തെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കണം ഇത് ശക്തമായ ഒരു പദപ്രയോഗമാണ് ഓക്സിജനുമായി കൈമാറ്റം ചെയ്യപ്പെട്ട സബ്സ്ട്റേറ്റിൽ നിന്ന് ലഭ്യമായ ഇലക്ട്രോണുകളുടെ ഭിന്നസംഖ്യയെ ഇത് സൂചിപ്പിക്കുന്നു കാരണം b എന്നത് ഓക്സിജന്റെ സ്റ്റോകിയോമെട്രിക് ഗുണകമാണ് 4b എന്നത് അതുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണുകളുടെ സംഖ്യയും 4b Γs ഓക്സിജനുമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ലഭ്യമായ ഇലക്ട്രോണുകളുടെ അംശം നൽകുന്നു ഇത് ε കൊണ്ട് സൂചിപ്പിക്കുന്നു yx Γx Γs കോശവുമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ലഭ്യമായ ഇലക്ട്രോണുകളുടെ അംശം നൽകുന്നു ഇത് η കൊണ്ട് സൂചിപ്പിക്കുന്നു yp Γp Γs ഉൽപന്നവുമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ലഭ്യമായ ഇലക്ട്രോണുകളുടെ അംശം നൽകുന്നു ഇത് ζ കൊണ്ട് സൂചിപ്പിക്കുന്നു ഇവയെല്ലാംകൂടി ഒന്നിന് തുല്യമാണ് കാരണം ഇവയെല്ലാം ഭിന്നസംഖ്യകളാണ് ഇപ്പോൾ ഇവ ഉപയോഗിച്ച് വളർച്ചാ സമയത്ത് ബയോ റിയാക്ടറിലെ കോശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന താപത്തെ എങ്ങനെ കണക്കാക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം പെരുവിരൽ നിയമങ്ങളുടെ മൂല്യങ്ങൾ അറിയപ്പെടുന്നതിനാലാണ് ഈ രീതിയുടെ ശക്തി വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ലഭ്യമായ ഇലക്ട്രോണുകളുടെ ഓക്സിജന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു മോളിൽ 27 കിലോ കലോറി താപം ഉൽപാദിപ്പിക്കപ്പെടുന്നു അതിനാൽ ε നിങ്ങൾക്കറിയാം ഓക്സിജന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന്റെ ഓരോ മോളിലും 27 കിലോ കലോറി താപം ഉത്പാദിപ്പിക്കപ്പെടുന്നു ഇത് അറിയാം നമ്മളുടെ ഉദാഹരണത്തിൽ ലഭ്യമായ ഇലക്ട്രോണുകളുടെ തുല്യത ഓക്സിജൻ മാറ്റിയത് 4b അതിനാൽ ഉൽപാദിപ്പിക്കുന്ന താപം 27 മറ്റൊരു കോണിൽ നിന്ന് ഓക്സിജൻ ഉപഭോഗത്തിന്റെ തോത് ഒരു ഗ്രാം കോശത്തിന് qo2 എന്ന അളവിൽ ഒരു DO പ്രോബ് ഉപയോഗിച്ച് അളക്കണം നിങ്ങൾക്കറിയാമോ DO ഡാറ്റ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ ഉപഭോഗ നിരക്ക് ലഭിക്കും താപം ഉൽപാദിപ്പിക്കുന്ന നിരക്ക് കണക്കാക്കാം പിന്നെ അത് കൂടുന്നു ഉപാപചയപരമായി എത്രമാത്രം താപം ഉൽപാദിപ്പിക്കപ്പെടുന്നുവെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ഏതുതരം തണുപ്പിക്കൽ രീതിയാണ് നാം കാണേണ്ടതെന്ന് പറയാൻ കഴിയും ആവശ്യമുള്ള തണുപ്പിക്കൽ നിരക്ക് ലഭിക്കുന്നതിന് കൂളിംഗ് കോയിലുകൾ രൂപകൽപ്പന ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും ഇത് തണുപ്പിക്കാൻ ഒരു കോയിൽ ഉപയോഗിക്കാം കാരണം താപനില വളരെയധികം കുറയാൻ പോകുന്നില്ല ഇത് കോശങ്ങളെ ബാധിക്കുകയില്ല പക്ഷേ തപീകരണ കോയിലുകൾ ശരിക്കും ഉപയോഗിക്കില്ല നമ്മൾ ജാക്കറ്റ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഒരു ജാക്കറ്റ് സിസ്റ്റം ഇത് തണുപ്പിക്കുന്നതിനും ഉപയോഗിക്കാം പക്ഷേ കൂളിംഗ് കോയിലുകളും ഉപയോഗിക്കുന്നു അതിനാൽ e നെ മാറ്റുന്ന നിരക്ക് O2 4 𝑞𝑂x V ഇവിടെ x കോശ സാന്ദ്രതയും V ബയോറിയാക്റ്റർ വ്യാപ്തവും ഒരു ഗ്രാം കോശത്തിലെ മോളിലെ ഓക്സിജന്റെ വർദ്ധനവ് 𝑞𝑂2 ആണ് ഉചിതമായ യൂണിറ്റുകൾ ലഭിക്കുന്നതിന് നമ്മൾ അതിനെ കോശ സാന്ദ്രത കൊണ്ട് ഗുണിക്കണം തുടർന്ന് നമുക്ക് ആവശ്യമുള്ള യൂണിറ്റുകളിൽ ലഭിക്കുന്നതിന് ബയോ റിയാക്ടർ വ്യാപ്തം കൊണ്ട് ഗുണിക്കുക അതിനാൽ ഇലക്ട്രോണുകളെ ഓക്സിജനിലേയ്ക്ക് മാറ്റുന്ന നിരക്ക് യൂണിറ്റ് സമയത്തിന് ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലേ അതിനാൽ താപ ഉൽപാദന നിരക്ക് 27 നിരവധി തീരുമാനങ്ങളെടുക്കാൻ ഇത്കൊണ്ട് കഴിയും ഇപ്പോൾ ഈ പ്രശ്നം ഞാൻ നൽകാം ഈ പ്രഭാഷണം ഇവിടെ അവസാനിക്കുന്നു നമ്മൾ തിരികെ വരുമ്പോൾ അടുത്ത പ്രഭാഷണത്തിൽ പ്രശ്നം പരിഹരിക്കും പ്രാക്ടീസ് പ്രശ്നം 5 ഇനിപ്പറയുന്ന സമവാക്യത്തിൽ CHmOl a NH3 b O2 → yx CHpOnNq yp CHrOsNt c H2O d CO2 കോശ ഓക്സിജൻ യീൽഡ് കോയെഫീസിയൻറ് കണക്കാക്കുക Yx o നിർവചിച്ചിരിക്കുന്നത് 𝛤𝑠 𝛤𝑥 𝛤𝑝 𝜖 𝜂 𝜁 എന്നിവയ്ക്കിടയിലുള്ള അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളുടെയും ഉപയോഗിച്ച ഓക്സിജെൻറെയും അളവിന്റെ അനുപാതമാണ് കോശങ്ങളിലെ കാർബണിന്റെ മാസ് ബയോമാസ് 0 5 ആണെന്ന് കരുതുക കോശങ്ങൾ എയറോബിക്കായി വളരുകയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് 0 5 ന്റെ ഒരു ഭാഗം ലഭിക്കും അങ്ങനെയാണെങ്കിൽ അനേറോബിക്കായി ഇത് ഏകദേശം 0